പ്രഭാഷണം 03 എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിന്റെ ആമുഖം III എല്ലാവര്ക്കും ഹലോ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കോഴ്സിലേക്ക് സ്വാഗതം ഈ കോഴ്സിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകൾ കോണിക് വിഭാഗങ്ങൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ സെക്ഷനുകൾ ഐസോമെട്രിക് പ്രൊജക്ഷനുകൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ ഒരു അവലോകനം ഒരു ഡിസൈൻ പ്രോജക്റ്റ് എന്നിവ അടങ്ങിയിരിക്കുന്നു അവസാന രണ്ട് പ്രഭാഷണങ്ങളിൽ ഏതെങ്കിലും ഡ്രോയിംഗിനായി പിന്തുടരേണ്ട അടിസ്ഥാന ഡ്രോയിംഗ് ഉപകരണങ്ങളുടെയും ലെറ്ററിംഗ് സിസ്റ്റത്തിന്റെയും ആമുഖം നമ്മൾ ഉൾപ്പെടുത്തി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഡ്രോയിംഗ് എന്നത് ഒരു ഭാഗത്തിന്റെയോ അസംബ്ലി സിസ്റ്റം അല്ലെങ്കിൽ ഘടനയുടെ ഗ്രാഫിക്കൽ പ്രാതിനിധ്യമാണെന്നും ഫ്രീഹാൻഡ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചോ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചോ ഇവ നിർമ്മിക്കാമെന്നും അവിടെ നമ്മൾ മനസ്സിലാക്കി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഡ്രോയിംഗ് പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ അത് നിർമ്മാണത്തിനായി അയയ്ക്കും കൂടാതെ ആ ഡ്രോയിംഗിനെ വർക്കിംഗ് ഡ്രോയിംഗ് എന്ന് വിളിക്കും വർക്കിംഗ് ഡ്രോയിംഗുകളിൽ ഒരു ഉൽപ്പന്നത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക ഡ്രോയിംഗുകളാണ് ഉള്ളത് ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനും കൂട്ടിച്ചേർക്കുന്നതിനും ആവശ്യമായ എല്ലാ വിവരങ്ങളും അവയിൽ അടങ്ങിയിരിക്കുന്നു നമ്മുടെ കോഴ്സിൽ നമ്മൾ പ്രധാനമായും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഡ്രോയിംഗിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവസാന ക്ലാസിൽ ഒരു സംഗ്രഹമായി എ0 എ1 എ2 A0 A1 A2 മുതൽ എ4 വരെ ഉള്ള വ്യത്യസ്ത ഡ്രോയിംഗ് ഷീറ്റുകളും അവയുടെ സ്റ്റാൻഡേർഡ് വലുപ്പങ്ങളും കാണാൻ നമ്മൾ ശ്രമിച്ചു മികച്ച ഡ്രോയിംഗ് ലഭിക്കുന്നതിന് ഉപയോഗിക്കേണ്ട ടേബിളുകളും ഡ്രാഫ്റ്റർ കോമ്പസ് ഡിവൈഡറുകൾ വിവിധ ഷേഡുകൾ ഉള്ള പെൻസിലുകൾ അവയുടെ ഗ്രേഡുകൾ എന്നിവയും സെറ്റ് സ്ക്വയറുകൾ പ്രൊട്ടക്റ്റർ ഇറേസർ പോലുള്ള മറ്റ് ആക്സസറികളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ട അക്ഷരങ്ങൾ ഒരു അക്ഷരത്തിന്റെ ഉയരം ഒരു അക്ഷരത്തിന്റെ കനം ചെറിയക്ഷരമോ വലിയക്ഷരമോ ആണെങ്കിൽ നമ്മൾ ഏതുതരം അളവുകൾ പാലിക്കണം എന്നൊക്കെ നോക്കാൻ ശ്രമിച്ചു ഇന്നത്തെ പ്രഭാഷണത്തിൽ ഒരു ഡ്രോയിംഗ് ഷീറ്റിനായി ഉപയോഗിക്കുന്ന ലേഔട്ട് കളെ ക്കുറിച്ചും ഒരു ഡ്രോയിംഗ് ഷീറ്റിൽ ഉപയോഗിക്കുന്നതിനോ പരാമർശിക്കുന്നതിനോ ഉള്ള അളവുകളും ടോളറൻസുകളും നമ്മൾ കവർ ചെയ്യും ഒരു രേഖ വക്രം മുതലായവയുടെ അളവുകൾ എങ്ങനെ അടയാളപ്പെടുത്താൻ എന്നും ഈ ടോളറൻസ് പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാമെന്നും നമ്മൾ പ്രധാനമായും മനസിലാക്കും ഈ ഡ്രോയിംഗ് ഷീറ്റിൽ സ്റ്റാൻഡേർഡ് ലേഔട്ട്കൾ ഉപയോഗിക്കേണ്ടതുണ്ട് വ്യത്യസ്ത ഓർഗനൈസേഷനുകൾ ഈ സ്റ്റാൻഡേർഡ് ലേഔട്ട്കൾ വ്യക്തമാക്കുന്നു ഇതിൽ ഏകത കാര്യക്ഷമത നിർദ്ദിഷ്ട നിലവാരം എന്നിവ നേടാൻ ഉദ്ദേശിച്ചുള്ള മെറ്റീരിയലുകൾ അല്ലെങ്കിൽ പ്രക്രിയകൾക്കായുള്ള ഭാഗങ്ങളുടെ സവിശേഷതകളുടെ ഒരു കൂട്ടമാണ് സ്റ്റാൻഡേർഡ് അതിനാൽ ഒരാൾ പാലിക്കേണ്ട പ്രോട്ടോക്കോളുകൾ ഇവയാണ് ഒ എ ഐ എസ് ഇ എ എം എ ഇ എ ഐ ബി എസ് ISO AISI SAE ASTM ASME ANSI BIS എന്നിവയാണ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനുകളുടെ ഉദാഹരണങ്ങൾ ഒ എന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് എസ് എസ് ഇ എന്നത് സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ് എ ഇ എന്നത് അമേരിക്കൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അസോസിയേഷ ബി എസ് എന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്നിവയാണ് ഈ ഓർഗനൈസേഷനുകൾ ഓരോന്നും വ്യത്യസ്ത തരം മാനദണ്ഡങ്ങൾ പിന്തുടരുന്നു എന്നിട്ടും ഈ മാനദണ്ഡങ്ങളുടെ സാർവത്രികവൽക്കരണത്തിനായി ആളുകൾ ശ്രമിക്കുന്നു പ്രധാനമായും നമ്മുടെ ഡ്രോയിംഗ് ഷീറ്റുകൾക്കായി നമ്മൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡുകളുമായി പോകുന്നു ഒരു ഡ്രോയിംഗ് ഷീറ്റ് ലേഔട്ട്ന്റെ ഒരു ടെംപ്ലേറ്റ് നോക്കാം ഇവിടെ നമ്മൾ കാണിക്കുന്നത് ട്രിം ചെയ്ത എഡ്ജ് എന്നത് കട്ട് ചെയ്ത പേപ്പറാണ് ഈ നീളത്തിലും വീതിയിലുംഎ0 ഷീറ്റ് അല്ലെങ്കിൽ എ4 ഷീറ്റ് ലഭ്യമാണ് ആ അരികുകളെ ട്രിം ചെയ്ത അരികുകൾ എന്ന് വിളിക്കുന്നു ഡ്രോയിംഗ് ഷീറ്റ് ലേഔട്ടിൽ നമ്മൾ സാധാരണയായി ടൈറ്റിൽ ബ്ലോക്കും ഈ സ്ഥലത്തിനുള്ളിൽ വൈവിധ്യമാർന്ന ഡ്രോയിംഗുകളും ചില അതിർത്തി വിവരങ്ങൾ എ ബി സി ഡി A B C D പോലുള്ള ചില അക്ഷരങ്ങളും 1 2 3 4 പോലുള്ള ചില അക്കങ്ങളും കാണുന്നു ഈ ശീർഷക ബ്ലോക്കിനും അരികുകൾക്കുമിടയിൽ എത്ര സ്ഥലം അവശേഷിക്കുന്നുവെന്നും അതിർത്തി രേഖയുടെ വീതിയും ആ ഡ്രോയിംഗിന്റെ നീളവും എന്തായിരിക്കണമെന്നും അറിയാൻ ഒരാൾ സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളുകൾ പാലിക്കേണ്ടതുണ്ട് ഈ ക്ലാസ്സിൽ ഡ്രോയിംഗ് ഷീറ്റ് ലേഔട്ടിനെക്കുറിച്ച് നമ്മൾ വിശദമായി നോക്കും നമ്മൾ ഡ്രോയിംഗ് ഷീറ്റ് ലേഔട്ടിലുള്ള ആദ്യത്തേത് ബോർഡറുകൾ ആണ് സാധാരണയായി ട്രിം ചെയ്ത അരികുകൾക്കിടയിൽ 10 മില്ലീമീറ്ററോ അതിൽ കൂടുതലോ ഇടം ശേഷിക്കുന്നു അതിനാൽ ഷീറ്റ് ആ ലെവൽ വരെ ലഭ്യമാണ് നമ്മൾ അതിനെ ട്രിം ഷീറ്റ് എന്ന് വിളിക്കുന്നു അവിടെ നിന്ന് നമ്മൾ സാധാരണയായി 10 മില്ലീമീറ്ററോ അതിൽ കൂടുതലോ ഇടവിട്ട് ഒരു ചതുരാകൃതിയിലുള്ള ബ്ലോക്ക് നിർമ്മിക്കുന്നു 10 മില്ലിമീറ്ററിൽ കൂടുതലുള്ള എന്തും എല്ലായ്പ്പോഴും ശുപാർശ ചെയ്യുന്നു അടുത്തത് മാർജിൻ പൂരിപ്പിക്കൽ ആണ് നമ്മൾ വലതുവശത്ത് നിന്ന് ഇടത് വശത്തേക്ക് കാണുകയാണെങ്കിൽ ഈ അതിർത്തി രേഖകളുടെ വീതി ഇടത് വശത്ത് അൽപ്പം വിശാലമാണ് ആ അധിക സ്ഥലം നമ്മൾ എന്ത് ചെയ്താലും കുറഞ്ഞത് 20 മില്ലീമീറ്റർ ഇടം ഇടത് വശത്ത് ബോർഡർ ഉൾപ്പടെ വിട്ടിരിക്കണം സുഷിരം എടുക്കുന്നതിനാണ് ഇത് നൽകിയിരിക്കുന്നത് ആരെങ്കിലും ഈ ഡ്രോയിംഗ് ഷീറ്റുകൾ സ്റ്റേപ്പിൾ ചെയ്യാനോ അല്ലെങ്കിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി റെക്കോർഡ് ആയിട്ട് സൂക്ഷിക്കാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അധിക ഇടം ഉപയോഗിക്കും ഡ്രോയിംഗ് ഷീറ്റ് ലേഔട്ടിലുള്ള മറ്റൊന്നിനെ റഫറൻസ് ഗ്രിഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നു ഫ്രെയിമിനുള്ളിൽ ഡ്രോയിംഗ് എളുപ്പത്തിൽ കണ്ടെത്തുന്നതിന് എല്ലാത്തരം വ്യാവസായിക ഡ്രോയിംഗ് ഷീറ്റുകളിലും ഇത് നൽകിയിട്ടുണ്ട് ഫ്രെയിമുകളുടെ നീളവും വീതിയും ഇരട്ട സംഖ്യകളായി വിഭജിച്ച് അക്കങ്ങളോ വലിയ അക്ഷരങ്ങളോ ഉപയോഗിച്ച് ലേബൽ ചെയ്യുന്നു ഡ്രോയിംഗ് ഷീറ്റിൽ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റഫറൻസ് ഗ്രിഡ് സിസ്റ്റം കാണാൻ കഴിയും ലംബ ദിശയിൽ മുകളിൽ ഇടത് കോണിൽ നിന്ന് ആരംഭിക്കുന്ന വലിയ അക്ഷരങ്ങൾ എ ബി സി ഡി നൽകുന്നു ഇവിടെയും എ ബി സി ഡി A B C D എന്നിവ കാണാം അതുപോലെ തിരശ്ചീന ദിശയിൽ 1 2 3 4 എന്നീ അക്കങ്ങൾ നമുക്ക് കാണാം ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ ഒരു ഡ്രോയിംഗ് ഉണ്ട് അതേ ഭാഗത്തിന്റെ അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിന്റെ മറ്റൊരു ഡ്രോയിംഗ് ഇവിടെയുണ്ട് ഈ സന്ദേശം മികച്ച രീതിയിൽ എത്തിക്കുന്നതിന് നമ്മൾ സാധാരണയായി ഈ റഫറൻസ് ഗ്രിഡ് സിസ്റ്റത്തിനൊപ്പം പോകുന്നു ആ ഭാഗം 3 4 സി ബി വിവരങ്ങൾ പോലുള്ള റഫറൻസ് ഗ്രിഡ് സിസ്റ്റത്തിലായിരിക്കും അതിനാൽ ഈ എ ബി സി ഡി 1 2 3 4 എന്നിവ ഡ്രോയിംഗ് ഷീറ്റിന്റെ വിവിധ മേഖലകളുടെ ഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഉദാഹരണത്തിന് ഇവിടെ ഡബ്ല്യൂ എ ബി സോണിലും 1 2 സോൺ മുകളിൽ വലതുവശത്തും മുകളിൽ ഇടത് വശത്തും താഴെ ഇടത് വശത്തും താഴെ വലതുവശത്തും ഉണ്ട് തിരശ്ചീന അരികുകളിലുള്ള ഗ്രിഡുകളെ അക്കങ്ങളാൽ ലേബൽ ചെയ്തിരിക്കുമ്പോൾ ലംബ അരികുകളിലുള്ള ഗ്രിഡുകൾ വലിയക്ഷരങ്ങൾ ഉപയോഗിച്ച് ലേബൽ ചെയ്യുന്നു ഓരോ ഗ്രിഡിന്റെയും നീളം 25 മില്ലിമീറ്ററിനും 75 മില്ലിമീറ്ററിനും ഇടയിലാകാം ഈ താഴ്ന്ന പരിധിയോ മുകളിലെ പരിധിയോ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രോയിംഗ് ഷീറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു ഈ ഡ്രോയിംഗ് ഷീറ്റ് ലേഔട്ടിലുള്ള മറ്റൊരു പ്രധാന ഘടകം തിരുത്തൽപട്ടികയാണ് ഇവിടെ നമുക്ക് ആ തിരുത്തൽ ഷീറ്റ് കണ്ടെത്താം ഡ്രോയിംഗ് ഫ്രെയിമിന്റെ മുകളിൽ വലതുവശത്ത് ഒരു തിരുത്തൽ പട്ടിക സാധാരണയായി സ്ഥിതിചെയ്യുന്നു ഡ്രോയിംഗിലെ എല്ലാ പരിഷ്കാരങ്ങളും അവിടെ രേഖപ്പെടുത്തണം സാധാരണയായി ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകൾക്കായി ഘടകം പൂർത്തിയായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പുനരവലോകനം ആവശ്യമെങ്കിൽ ഒരു ഡ്രോയിംഗ് ഷീറ്റ് കൂടി പുനരവലോകനത്തിന് നൽകും ഡ്രോയിംഗ് ഷീറ്റിനായി വിവരങ്ങളുടെ സാങ്കേതിക ഉള്ളടക്കം ഒരു പട്ടികയായി നൽകും അതിനെ നമ്മൾ തിരുത്തൽ പട്ടിക എന്ന് വിളിക്കുന്നു പ്രൊഡക്ഷൻ ഡ്രോയിംഗുകൾക്കായി ഉദാഹരണത്തിന് ഡ്രോയിംഗിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങളിൽ ഒരു ഭാഗം പിച്ചള ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് മറ്റേ ഭാഗം വെങ്കലം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് മറ്റേ ഭാഗം ഇരുമ്പ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ ഈ വ്യത്യസ്ത വസ്തുക്കൾ പരാമർശിക്കേണ്ടതുണ്ട് അതിനാൽ അവയുടെ ആവശ്യത്തിനായി മെറ്റീരിയൽ ബിൽ എന്ന് വിളിക്കുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ഭാഗങ്ങളുടെ ലിസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡ്രോയിംഗിൽ നിരവധി ഭാഗങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് ഒരു അസംബ്ലി ഡ്രോയിംഗ് ആണെങ്കിലോ ഡ്രോയിംഗിലേക്ക് ഒരു പട്ടികപ്പെടുത്തിയ പാർട്ട് ലിസ്റ്റ് ചേർക്കേണതുണ്ട് മെറ്റീരിയൽ ബിൽ സാധാരണയായി ഡ്രോയിംഗ് ഫ്രെയിമിന്റെ ചുവടെ വലതുവശത്ത് ടൈറ്റിൽ ബ്ലോക്കിന് മുകളിലായി സ്ഥാപിക്കുന്നു സാധാരണയായി നമുക്ക് ഇവിടെ ടൈറ്റിൽ ബ്ലോക്ക് ഉണ്ട് ഒരു ഡ്രോയിംഗ് ഷീറ്റിന്റെ ഒരു ഉദാഹരണം നോക്കാം അതിനാൽ ഒരു ഡ്രോയിംഗ് ഷീറ്റിൽ ഇവ റഫറൻസ് ഗ്രിഡ് സിസ്റ്റമാണ് ഇവിടെ നമുക്ക് ടൈറ്റിൽ ബ്ലോക്കും അടിസ്ഥാന ഘടകങ്ങളും കാണാൻ കഴിയും ഐസോമെട്രിക് കാഴ്ചകൾ ത്രിമാന വസ്തുക്കൾ അവയുടെ പ്രൊജക്ഷൻ കാഴ്ചകൾ എന്നിവ നമുക്ക് കാണാൻ കഴിയും ഏതെങ്കിലും ആന്തരിക വിശദാംശങ്ങളും മറ്റും കാണിക്കേണ്ടതുണ്ടെങ്കിൽ അതും കാണിക്കാം ടൈറ്റിൽ ബ്ലോക്കിനായി വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാം ഇവിടെ നമുക്ക് ഒരുതരം നമ്പറിംഗ് സിസ്റ്റം കാണാം ഡൈമെൻഷന്സ് എന്ന് വിളിക്കുന്ന വരികളും ചില അക്കങ്ങളും ഉണ്ട് നമ്മൾ അത് പിന്നീട് കാണും ഇപ്പോൾ നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഡ്രോയിംഗ് ഷീറ്റിന്റെ ഡൈമെൻഷന്സ്ലേക്ക് മടങ്ങുന്നു ഉദാഹരണത്തിന് വ്യാസമുള്ള ഒരു സർക്കിൾ പോലെയുള്ള ഒന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എങ്ങനെ പേര് നൽകാം എന്ന് നമ്മൾ ഈ വിഭാഗത്തിൽ കാണാൻ പോകുന്നു ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഡൈമെൻഷന്സ് ഡൈമെൻഷന്സിൻറെ അടിസ്ഥാന നിയമങ്ങൾ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകളിൽ നല്ല ഡൈമെൻഷന്സ്ന് ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്നിവ നമ്മൾ പരിശോധിക്കുന്നു ഡൈമെൻഷന്സ് എന്താണെന്ന് നമുക്ക് ആദ്യ ഭാഗത്തിൽ നോക്കാം രൂപകൽപ്പനയുടെ അല്ലെങ്കിൽ മോഡൽ ആകൃതിയുടെ വലുപ്പവും സ്ഥാനവും പ്രതിനിധീകരിക്കുന്നതിന് നമ്മൾ ഡൈമെൻഷന്സ് ഉപയോഗിക്കുന്നു ഉചിതമായ അളവുകളുടെ യൂണിറ്റുകളിൽ പ്രകടിപ്പിക്കുന്ന ഒരു സംഖ്യാ മൂല്യമാണ് ഒരു അളവ് ഒരു ഭാഗത്തിന്റെ വലുപ്പം ഓറിയന്റേഷൻ ഫോം അല്ലെങ്കിൽ മറ്റ് ജ്യാമിതീയ സവിശേഷതകൾ നിർവചിക്കാൻ ഇത് ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ഈ ദീർഘചതുരത്തെ പ്രതിനിധീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് സ്വാഭാവികമായും ഉയരം എന്തായിരിക്കാമെന്നും അതിന്റെ വീതിയും നീളവും എന്താണെന്നും ഞാൻ പരാമർശിക്കേണ്ടതുണ്ട് ഒരുപക്ഷേ ഇത് ഭൂനിരപ്പിൽ നിന്ന് 5 മീറ്റർ ഉയരത്തിലായിരിക്കാം അതിനാൽ ഈ പ്രഭാഷണത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇത്തരത്തിലുള്ള ഡൈമെൻഷന്സിനെ കുറിച്ച് ആണ് ഉൽപാദന കേന്ദ്രത്തിലെ യന്ത്രങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിന് ശരിയായ ഡൈമെൻഷന്സ് ആവശ്യമാണ് ഈ ഡ്രോയിംഗ് ഷീറ്റുകളിലെ ഡൈമെൻഷന്സിന്റെ സാങ്കേതിക വിവരങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ളതാണ് എന്നതാണ് അവ രേഖീയ അളവുകൾ ആകാം ഇത് ഒരു സിലിണ്ടറിന്റെ അല്ലെങ്കിൽ ഒരു വക്രത്തിന്റെ ഭാഗത്തിന്റെ വ്യാസം അല്ലെങ്കിൽ വ്യാസം പ്രതിനിധീകരിക്കുന്ന കോണാകാം ഇത് ഒരു പ്രത്യേക റഫറൻസ് സ്കെയിലുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നു നമുക്ക് ഡൈമെൻഷന്സിന്റെ അടിസ്ഥാന പദങ്ങൾ നോക്കാം ഇവിടെ നമ്മൾ ഒരു പ്രത്യേക ആകൃതിയിലുള്ള ഒബ്ജക്റ്റ് കാണുന്നു അവിടെ നമ്മൾ രേഖകളും അമ്പും പോലുള്ള ചിലതും ചില ദശാംശങ്ങളുള്ള ചില അക്കങ്ങളും കാണുന്നു അതുപോലെ ഇവിടെയും ഡൈമെൻഷെൻ എന്ന് വിളിക്കുന്ന അമ്പുകളുള്ള ചില അക്കങ്ങളെ നമ്മൾ കാണുന്നു കൃത്യമായി പറഞ്ഞാൽ ഇവ വലിയ തോതിലുള്ള വിവരങ്ങളാണ് അതിനാൽ നമ്മൾ അതിനെ അടിസ്ഥാന അളവ് മൂല്യമായി വിളിക്കുന്നു ഡൈമെൻഷെൻ പ്രതിനിധീകരിക്കുന്നതിന് നമുക്ക് ഒരു ഡൈമെൻഷെൻ രേഖ ആവശ്യമാണ് അതിനാൽ ഒരു രേഖയുണ്ട് ഡൈമെൻഷെൻ അവസാനിക്കുമ്പോൾ നമ്മൾ അതിനെ ഒരു അമ്പടയാളം ഉപയോഗിച്ച് കാണിക്കുന്നു അതിനാൽ അമ്പടയാളമുള്ള ഒരു രേഖയെ ടെർമിനേഷൻ ചിഹ്നം എന്ന് വിളിക്കുന്നു നമ്മൾ ഉപയോഗിക്കാൻ താൽപ്പര്യപ്പെടുന്ന ഏതൊരു ദൈർഘ്യ സ്കെയിലും അവസാനിപ്പിക്കുന്ന അമ്പടയാളങ്ങൾ ഉപയോഗിച്ച് ഇത് കാണിക്കേണ്ടതുണ്ട് നമ്മൾ ഇടയ്ക്കിടെ ഡൈമെൻഷന്സ് കാണിക്കുമ്പോൾ നമ്മൾ ഡ്രോ ലൈൻസ് എന്ന് എഴുതുന്നു ഉദാഹരണത്തിന് ഇവിടെ ഇതും ഇതും ഡ്രോയിംഗിന്റെ ഭാഗമല്ല എന്നാൽ ഈ ഡൈമെൻഷെൻ പ്രതിനിധീകരിക്കുന്നതിന് നമ്മൾ സാധാരണയായി എക്സ്റ്റൻഷൻ രേഖ എന്ന് വിളിക്കുന്നത് വരയ്ക്കുന്നു വക്രങ്ങൾ ഉൾപ്പെടുമ്പോഴെല്ലാം ആ ആരത്തിന്റെ ഡൈമെൻഷെൻ കാണിക്കുന്നത് ഒരു പതിവാണ് ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് ഒരു അർദ്ധ വൃത്താകൃതിയിലുള്ള ആർക്ക് ഉണ്ട് അതിനാൽ ഇതിന് 1 25 മില്ലിമീറ്റർ ആരം ഉണ്ടായിരിക്കണം കൂടാതെ ആരം ചിഹ്നത്തിനായി നമ്മൾ R എന്ന അക്ഷരം ഉപയോഗിക്കുന്നു ഇവിടെ നമ്മൾ ലീഡർ ലൈൻ കാണിക്കുന്നു ഇതും ഒരു റേഡിയൽ ലൈൻ ആണ് അതിനാൽ ആ ദിശയിലേക്ക് ഒരു അമ്പടയാളം പോകുന്നതായി നമുക്ക് കാണാം ഫൈ വ്യാസ ചിഹ്നത്തെയും 1 0 ഡൈമെൻഷൻറെ മൂല്യത്തെയും പ്രതിനിധീകരിക്കുന്നു അതിനാൽ വ്യാസ ചിഹ്നം ഉപയോഗിക്കേണ്ടി വരുമ്പോൾ സാധാരണയായി നമ്മൾ ഫൈ എന്ന ഗ്രീക്ക് അക്ഷരവുമായി പോകുന്നു ആരത്തിനെ പ്രതിനിധീകരി ക്കാൻ ആർ ഉപയോഗിക്കുന്നു നമുക്ക് സിലിണ്ടർ വസ്തുക്കൾ ഉള്ളപ്പോഴെല്ലാം സെന്റർലൈൻ എന്ന് വിളിക്കുന്ന ഒരു രേഖ കൂടി വരക്കേണ്ടതുണ്ട് നമുക്ക് സിലിണ്ടർ വസ്തുക്കൾ ഉള്ളപ്പോഴെല്ലാം നമുക്ക് അക്ഷം കാണിക്കേണ്ട ആവശ്യം വരുന്നു അതിനു നമ്മൾ സെന്റർലൈൻ ഉപയോഗിക്കുന്നു റഫറൻസ് ഡൈമെൻഷന്സ് പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം നമ്മൾ ആ പരാന്തിസിസും 2 50 ഉം ഉപയോഗിക്കുന്നു ഡ്രോയിംഗിൽ ഈ നീളം 2 5 ആയിരിക്കണമെന്ന് ഇത് സൂചിപ്പിക്കുന്നു എന്നാൽ ഇത് 2 5 ആയിരിക്കണം എന്ന് ഇല്ല എന്നാൽ പ്രതിനിധീകരിക്കുന്നതിനായി ആളുകൾ ഈ ഡൈമെൻഷന്സ് ലളിതമാക്കാൻ താൽപ്പര്യപ്പെടുമ്പോഴെല്ലാം 2 5 ഉം അമ്പടയാളങ്ങളും ഉപയോഗിച്ച് ഈ പരാൻതീസിസ് ഉപയോഗിക്കുന്നു അത്തരം ഡൈമെൻഷന്സ്കളെ റഫറൻസ് അളവുകൾ എന്ന് വിളിക്കുന്നു ഡ്രോയിംഗിനെ പ്രതിനിധീകരിക്കുന്നതിനായി നൽകിയ അധിക ഡൈമെൻഷന്സ് ഇവയാണ് ഈ ഡൈമെൻഷെൻ വിശദമായി ഡ്രോയിംഗിൽ നൽകിയിരിക്കണം നമുക്ക് മറ്റൊരു ഡ്രോയിംഗ് നോക്കാം ഇവിടെ നമ്മൾ ഈ ആകാരം കാണുന്നു അടിസ്ഥാന അളവായി 1 20 ഉള്ള വിപുലീകരണ ലൈനുകൾ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കാം നമുക്ക് സിലിണ്ടർ വസ്തുക്കൾ ഉള്ളപ്പോഴെല്ലാം മധ്യരേഖകൾ ഉണ്ടെന്ന് ഇവിടെ കാണാം ഉദാഹരണത്തിന് സിലിണ്ടർ ഭാഗങ്ങളിൽ ഒരു അക്ഷം പോലെയുള്ള ഒന്ന് പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ മധ്യരേഖകൾ ഉപയോഗിക്കുന്നു മെറ്റീരിയൽ സ്കൂപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മെറ്റീരിയൽ ആരംഭിക്കുമ്പോഴോ ഈ ഡാഷ് രേഖകളിലൂടെ നമ്മൾ അത് കാണിക്കുന്നു ഇവ അകത്തെ വിശദാംശങ്ങളാണ് ഡാഷ് ചെയ്ത രേഖകൾ എന്താണെന്നും ഡാഷ് ഡോട്ട് ലൈനുകൾ എന്താണെന്നും ഈ തുടർച്ചയായ രേഖകൾ എന്തൊക്കെയാണെന്നും നമ്മുടെ കോഴ്സിൽ പഠിക്കും ഇപ്പോൾ മുതൽ നമ്മൾ അളവുകളും ആരം ചിഹ്നങ്ങളും വ്യാസങ്ങളും ഈ റഫറൻസ് അളവുകളും പരിശോധിക്കും നമുക്ക് ഡൈമെൻഷന്സ് സ്കെയിൽ ചെയ്യേണ്ട ആവശ്യം ഇല്ലെങ്കിൽ സാധാരണയായി അമ്പടയാളവും 0 75 സൂചിപ്പിക്കുന്ന ഒരു വരിയും ഉപയോഗിച്ച് നമ്മൾ അതിനെ പ്രതിനിധീകരിക്കുന്നു അതിൽ ഏത് ഡൈമെൻഷെൻ ഉൾപ്പെട്ടിട്ടുള്ളതെങ്കിലും നമ്മൾ ആ ഡൈമെൻഷെൻ കാണിക്കുന്നു അത് സ്കെയിൽ ചെയ്യേണ്ട ആവശ്യമില്ലാത്തപ്പോഴെല്ലാം നമ്മൾ ഒരു അടിവരയിടുന്നു അതിനാൽ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരം ഈ സാഹചര്യത്തിൽ 0 75 ആണ്